നമസ്കാരം അവസാന ക്ലാസ്സിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ചില പ്രധാന സവിശേഷതകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഈ ക്ലാസ്സിലും ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ പ്രധാന സവിശേഷതകൾ ചർച്ച ചെയ്യുന്നത് തുടരും ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് നോക്കാം ലീനിയറിറ്റിയെക്കുറിച്ച് ചർച്ചചെയ്തു അതിനാൽ f1 f2 എന്നിവയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം F1 F2 ആണെന്ന് കണ്ടു അതിനാൽ അവയുടെ ലീനിയർ സംയോജനം പോലെയാകും ഈ ലീനിയർ പദത്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ സ്കെയിലിംഗിനായി f ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ ഇപ്പോൾ ടൈം ഷിഫ്റ്റിന്റെ കാര്യത്തിൽ സിഗ്നൽ a എന്ന് പറയുന്ന സമയത്തേക്ക് മാറുകയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും അതിനാൽ ഈ മൂന്ന് സവിശേഷതകളും അവസാന ക്ലാസിൽ ചർച്ചചെയ്തു ഇനി നമുക്ക് ഫ്രീക്വൻസി ഷിഫ്റ്റിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ F എന്നത് f ന്റെ ലാപ്ലേസ് പരിവർത്തനമാണ് തുടർന്ന് ന്റെ ലാപ്ലേസ് അതിനാൽ ഫ്രീക്വൻസി ഷിഫ്റ്റിന്റെ കാര്യത്തിൽ ഓരോ s ഉം sa ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നതിലൂടെ f ന്റെ ലാപ്ലേസ് പരിവർത്തനത്തിൽ നിന്ന് ലഭിക്കും അതിനാൽ ഈ പ്രത്യേക പ്രോപ്പർട്ടിയെ ഫ്രീക്വൻസി ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം നമുക്കറിയാം ഇപ്പോൾ ഷിഫ്റ്റ് പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഡാംപ്ഡ് സൈനസോയിഡുകളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നേടേണ്ടതുണ്ട് അത് ഡാംപ്ഡ് സൈൻ ഡാംപ്ഡ് കോസൈൻ ഫംഗ്ഷനുകൾ എന്നിവയാണ് എന്നതിനർത്ഥം അല്ലെങ്കിൽ എന്നിവ ഉപയോഗിച്ച് ഗുണിക്കുകയാണ് അതിനാൽ s നെ sa ഉപയോഗിച്ച് മാറ്റി അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമുകൾ നൽകാം

ഇപ്പോൾ ടൈം ഡിഫറൻഷിയേഷനെക്കുറിച്ച് സംസാരിക്കാം F f ന്റെ ലാപ്ലേസ് പരിവർത്തനമാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തേണ്ടതുണ്ട് അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ അടിസ്ഥാന നിർവചനം ഉപയോഗിക്കുന്നതിനാൽ ഇപ്പോൾ ഈ പ്രത്യേക തരം ഇന്റഗ്രൽ എങ്ങനെ പരിഹരിക്കും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് രീതി ഉപയോഗിക്കും അതിനാൽ ഇന്റഗ്രൽ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന അതേ പ്രോപ്പർട്ടി അതിനാൽ ഇവിടെ u e−st du −se−st dt dv dfdt dt df v f പിന്നെ ഇപ്പോൾ സമാനമായി നിങ്ങൾക്ക് f ന്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കാം

അതിനാൽ ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തുന്നതിനുള്ള ജനറിക് രീതിയാണിത് ഇപ്പോൾ ടൈം ഇന്റഗ്രേഷനെക്കുറിച്ച് സംസാരിക്കാം F എന്നത് f ന്റെ ലാപ്ലേസ് പരിവർത്തനമാണ് തുടർന്ന് ഇന്റഗ്രലിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇത് ഭാഗങ്ങളായി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉം അതിനാൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ഫംഗ്ഷൻ ലഭിക്കും ഇപ്പോൾ ഈ പ്രത്യേക പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കാണുകയാണെങ്കിൽ ടി എന്ന പദം ഇൻഫിനിറ്റിയിലേക്ക് നീങ്ങുമ്പോൾ എന്ത് കാണും ഈ പദപ്രയോഗത്തിൽ നിങ്ങൾക്കുള്ള ആദ്യ പദത്തെക്കുറിക്കുറിച്ച് സംസാരിക്കാം സമവാക്യത്തിന്റെ വലതുവശത്തുള്ള ആദ്യത്തെ ടേമിനായി t ∞ ൽ e−s∞ കാരണം പൂജ്യം എന്ന പദം നൽകുന്നു t 0 ൽ നൽകുന്നു അങ്ങനെ ആദ്യത്തെ പദം പൂജ്യമാണ് അവസാനമായി നമുക്ക് അവശേഷിക്കുന്നത് ഇനി നമുക്ക് ഫ്രീക്വൻസി ഡിഫറൻഷിയേഷൻ എന്നതിനെക്കുറിച്ച് സംസാരിക്കാം f യുടെ ലാപ്ലേസ് പരിവർത്തനമാണ് F എങ്കിൽ S നെ സംബന്ധിച്ച് ഡെറിവേറ്റീവ് എടുക്കുന്നു അതിനാൽ കൂടുതൽ ജനറിക്കായി നിങ്ങൾക്ക് ഇത് പോലെ എഴുതാം ഈ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഫ്രീക്വൻസി ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടി നൽകും ഇപ്പോൾ ടൈം പിരിയോഡിസിറ്റിയെക്കുറിച്ച് സംസാരിക്കാം f എന്ന ഫംഗ്ഷൻ ഒരു പീരിയോഡിക് ഫംഗ്ഷനാണെങ്കിൽ അത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു അതിനാൽ ഇതിനെ ടൈം ഷിഫ്റ്റഡ് ഫംഗ്ഷനുകളുടെ ആകെത്തുകയായി പ്രതിനിധീകരിക്കാം എങ്ങനെ അടുത്ത വരിയിൽ നമുക്ക് നോക്കാം അതിനാൽ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ പീരിയോഡിക് ഫംഗ്ഷനെ മൂന്ന് ഭാഗങ്ങളായി തിരിക്കാം അതിനാൽ 0 മുതൽ t വരെ കാലയളവുള്ള ഫംഗ്ഷനാണ് രണ്ടാമത്തേത് ആണ് അത് t മുതൽ 2t വരെയുള്ള കാലയളവാണ് മൂന്നാമത്തേത് 2t മുതൽ 3t വരെയാണ് ഇപ്പോൾ ഫംഗ്ഷൻ കംപൈൽ ചെയ്യുകയാണെങ്കിൽ സ്റ്റെപ്പ് ഫംഗ്ഷനുകൾ അനുസരിച്ച് മുകളിലുള്ള എക്സ്പ്രഷൻ എഴുതാം പീരിയോഡിക് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം F കണ്ടെത്താൻ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ എഴുതുക f1 ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം F1 ആണ് തുടർന്ന് ടൈം ഷിഫ്റ്റ് പ്രോപ്പർട്ടി ഉപയോഗിക്കും കൂടാതെ രണ്ടാമത്തെ ടേമിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതുകയും അത് ആയി മാറുകയും ചെയ്യും മൂന്നാം ടേമിനായി ഇത് ആയി മാറും ഒടുവിൽ ഈ പദപ്രയോഗം ലഭിക്കും ഇപ്പോൾ നിങ്ങൾ ഈ ശ്രേണിയിൽ സംഗ്രഹിക്കുകയാണെങ്കിൽ |x|1 എങ്കിൽ ഇപ്പോൾ ഈ പ്രത്യേക പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അതിനാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് നിരീക്ഷിക്കാനാകും f1 ന്റെ ലാപ്ലേസ് പരിവർത്തനമാണ് F1 എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും അതിനർത്ഥം അതിന്റെ ആദ്യ കാലയളവിൽ മാത്രം നിർവചിച്ചിരിക്കുന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ് പരിവർത്തനമാണ് ഇപ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത് സമ്പൂർണ്ണ പീരിയോഡിക് ഫംഗ്ഷന്റെ ലാപ്ലേസ് പരിവർത്തനമായ F കണ്ടെത്തണമെങ്കിൽ F1 1 − e−Ts കൊണ്ട് ഹരിക്കേണ്ടതാണ് അപ്പോൾ പൂർണ്ണ പീരിയോഡിക് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ലഭിക്കും ഇനി നമുക്ക് രണ്ട് പ്രധാന പ്രോപ്പർട്ടികളെക്കുറിച്ച് സംസാരിക്കാം പ്രാരംഭ അന്തിമ മൂല്യ സിദ്ധാന്തങ്ങൾ ഫംഗ്ഷന്റെ പ്രാരംഭവും അന്തിമവുമായ മൂല്യങ്ങൾ കണ്ടെത്തുന്നതിന് ഈ രണ്ട് സിദ്ധാന്തങ്ങളും വളരെ പ്രധാനമാണ് അതിനാൽ ഇതിനർത്ഥം സമയം ടി 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ മൂല്യം കണ്ടെത്താനും ഇൻഫിനിറ്റി ആകുമ്പോൾ ഫംഗ്ഷന്റെ മൂല്യം കണ്ടെത്താനും ഇത് കണ്ടെത്തുന്നു f ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ സഹായത്തോടെ ഈ രണ്ട് മൂല്യങ്ങളും നമുക്ക് നേരിട്ട് കണ്ടെത്താൻ കഴിയും അതായത് F നമുക്ക് എങ്ങനെ ലഭിക്കും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്ന ഫംഗ്ഷന്റെ ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടി നമുക്ക് എടുക്കാം അതിനാൽ എന്നത് മൈനസ് പൂജ്യത്തിലെ ഫംഗ്ഷന്റെ മൂല്യം അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ s→∞ നെ അനുവദിക്കുകയാണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഘടകം കുറയുന്നതിനാൽ മുകളിലുള്ള സമവാക്യത്തിലെ ഇന്റഗ്രൽ അപ്രത്യക്ഷമാകും അതിനാൽ മൂല്യം s ഇൻഫിനിറ്റി ആകുമ്പോൾ ലഭിക്കും അതിനാൽ ന്റെ വലതുവശത്തുള്ള എക്സ്പ്രഷൻ മുഴുവനും പൂജ്യമാകും അതിനാൽ ഇത് പൂജ്യമാകുമ്പോൾ ഇത് എന്ന് എഴുതാം കാരണം ഈ മൂല്യം ഒരു സ്ഥിരമായ മൂല്യമായിരിക്കും അതിനാൽ എന്ന് എഴുതാം ഈ പ്രത്യേക പ്രോപ്പർട്ടി പ്രാരംഭ മൂല്യ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു ഇപ്പോൾ അന്തിമ മൂല്യ സിദ്ധാന്തത്തിന്റെ കാര്യത്തിൽ സമാന പ്രോപ്പർട്ടി എടുക്കുന്നു അതായത് ഇപ്പോൾ s → 0 ആണെങ്കിൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക

ഇത് ഇൻഫിനിറ്റിയിലെ ഫംഗ്ഷന്റെ മൂല്യം മൈനസ് പൂജ്യത്തിലെ ഫംഗ്ഷന്റെ മൂല്യം ആയി മാറും ഇപ്പോൾ ഇരുവശത്തും പൂജ്യത്തിൽ ഫംഗ്ഷന്റെ മൂല്യം ഉണ്ട് അവ രണ്ടും റദ്ദാക്കും അതിനാൽ ഒടുവിൽ എന്ത് ലഭിക്കും ഇൻഫിനിറ്റിയിലെ ഫംഗ്ഷന്റെ മൂല്യം അതിനാൽ ഇവ രണ്ടും ഇവിടെ താരതമ്യം ചെയ്താൽ s ഇൻഫിനിറ്റി പ്രവണത കാണിക്കുമ്പോൾ മൂല്യം പ്രാരംഭ മൂല്യം നൽകും അന്തിമ മൂല്യത്തിന്റെ കാര്യത്തിൽ f ഇൻഫിനിറ്റി പരിധി 0 ആയിരിക്കുമെന്നും പരിധി s 0 ആകുമ്പോൾ ഫംഗ്ഷൻ sF മൂല്യം കണ്ടെത്തും അതിനാൽ s ഇൻഫിനിറ്റിലേക്ക് പ്രവണത കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മൂല്യം ഉത്ഭവം ആയിരിക്കും എന്ന് മനസിലാക്കിക്കൊണ്ട് ഇത് ഓർമിക്കാം s 0 ആകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫങ്ഷന്റെ മൂല്യം ഇൻഫിനിറ്റി ആയിരിക്കും ഇവ രണ്ടും വളരെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് പക്ഷേ അന്തിമ മൂല്യ സിദ്ധാന്തത്തിന് അതിന്റേതായ പരിമിതികളുണ്ട് എന്താണ് ആ പരിമിതികൾ F ന്റെ എല്ലാ പോളുകളും എസ് പ്ലെയിനിന്റെ ഇടത് പകുതിയിൽ ആയിരിക്കുമ്പോൾ മാത്രമേ അന്തിമ മൂല്യ സിദ്ധാന്തത്തിന് സാധുതയുള്ളൂ പോളുകൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് ഈ ഫംഗ്ഷൻ പറയാം നിങ്ങൾ ഡിനോമിനേറ്റർ എടുത്ത് അതിനെ 0 ലേക്ക് തുല്യമാക്കുമ്പോൾ ഈ പദപ്രയോഗത്തിന്റെ റൂട്ടുകൾ കണ്ടെത്താൻ ശ്രമിക്കുക ഇത് രണ്ടാമത്തെ ഓർഡർ സമവാക്യമായതിനാൽ s ന്റെ രണ്ട് റൂട്ടുകൾ ലഭിക്കും അതിനാൽ ഈ രണ്ട് റൂട്ടുകളും F ന്റെ പോളുകളല്ലാതെ മറ്റൊന്നുമായിരിക്കില്ല ആ റൂട്ടുകളുടെ മൂല്യത്തിന് എന്തെങ്കിലും നെഗറ്റീവ് യഥാർത്ഥ ഭാഗം ഉണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കണം പോളുകൾക്ക് നെഗറ്റീവ് റിയൽ ഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ F ഫംഗ്ഷനിൽ അന്തിമ മൂല്യ സിദ്ധാന്തം പ്രയോഗിക്കാൻ കഴിയൂ ഈ കേസിലെ ഒരേയൊരു അപവാദം F സിംപിൾ പോൾ s 0 ന് തുല്യമാകുമ്പോൾ മാത്രമാണ് ഈ പദപ്രയോഗത്തിന് 1s പോലുള്ള ഘടകം ഉണ്ടെങ്കിൽ s ന് ഒരു പോൾ 0 ന് തുല്യമായിരിക്കും അന്തിമ മൂല്യ സിദ്ധാന്തം കണ്ടെത്തുന്നതിനുള്ള ഒരേയൊരു അപവാദം അതാണ് അതിനാൽ ഫംഗ്ഷന്റെ അന്തിമ മൂല്യം കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് ഇനി നമുക്ക് ഉദാഹരണമെടുക്കാം f ന്റെ മൂല്യം ഇൻഫിനിറ്റിയായി പ്രയോഗിക്കുകയാണെങ്കിൽ അന്തിമ മൂല്യ സിദ്ധാന്തം ഇത് ആയിരിക്കും f എന്ന ഫംഗ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും കാരണം ഫംഗ്ഷനോടൊപ്പം എക്സ്പോണൻഷ്യൽ ആയി ക്ഷയിക്കുന്ന ഒരു ഘടകം ഉണ്ട് അതിനാൽ അവസാന മൂല്യം എല്ലായ്പ്പോഴും പൂജ്യമായിരിക്കും ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം നമുക്ക് ഒരു ഫംഗ്ഷൻ എടുക്കാം ഇപ്പോൾ അന്തിമ മൂല്യ സിദ്ധാന്തം പ്രയോഗിക്കുകയാണെങ്കിൽ പക്ഷെ ഇത് തെറ്റാണ് എന്തുകൊണ്ട് കാരണം sin t എന്ന f ഫംഗ്ഷൻ എല്ലായ്പ്പോഴും പ്ലസ് 1 നും മൈനസ് 1 നും ഇടയിൽ മാറിക്കൊണ്ടിരിക്കും കൂടാതെ ടി ഇൻഫിനിറ്റിയിലേക്ക് പ്രവണത കാണിക്കുന്നതിനാൽ അതിന് പരിധിയുണ്ടാകില്ല ഇപ്പോൾ അന്തിമ മൂല്യ സിദ്ധാന്തം ഈ കേസിൽ ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ഈ പ്രത്യേക രണ്ടാം ഓർഡർ സമവാക്യത്തിന്റെ റൂട്ടുകളായ പോളുകൾ എടുക്കുകയാണെങ്കിൽ പോളുകൾക്ക് s± j എന്ന മൂല്യമുണ്ടെന്ന് കാണും അവ എസ് പ്ലെയിനിന്റെ ഇടത് പകുതിയിലല്ല ഈ രണ്ട് പോളുകൾക്കും നെഗറ്റീവ് യഥാർത്ഥ മൂല്യമൊന്നുമില്ല അതായത് ഈ സാഹചര്യത്തിൽ അന്തിമ മൂല്യ സിദ്ധാന്തം പ്രയോഗിക്കാൻ കഴിയില്ല അതിനാൽ അന്തിമ മൂല്യ സിദ്ധാന്തം എവിടെ പ്രയോഗിക്കാമെന്നും ഉപയോഗിക്കാൻ കഴിയാത്ത ഇടവും നിങ്ങൾ എല്ലായ്പ്പോഴും ഓർമ്മിക്കേണ്ടതാണ് സിനുസോയ്ഡൽ ഫംഗ്ഷനുകളുടെ അന്തിമ മൂല്യങ്ങൾ കണ്ടെത്തുന്നതിൽ അന്തിമ മൂല്യ സിദ്ധാന്തം ബാധകമല്ലെന്ന് സംഗ്രഹിക്കാം കാരണം ഈ ഫംഗ്ഷനുകൾ ഓസിലേറ്ററി സ്വഭാവമുള്ളതും അന്തിമ മൂല്യങ്ങളില്ലാത്തതുമാണ് ഇപ്പോൾ പ്രാരംഭ മൂല്യങ്ങളും അന്തിമ മൂല്യ സിദ്ധാന്തങ്ങളും ടൈം ഡൊമെയ്നിലും s ഡൊമെയ്നിലും ഉറവിടവും ഇൻഫിനിറ്റിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നു ഈ രണ്ട് സിദ്ധാന്തങ്ങളും ലാപ്ലേസ് പരിവർത്തനത്തെക്കുറിച്ചുള്ള ഉപയോഗപ്രദമായ പരിശോധനയായി വർത്തിക്കുന്നു അതിനാൽ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം അതുവഴി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും യൂണിറ്റ് ഇമ്പൾസ് യൂണിറ്റ് സ്റ്റെപ്പ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്നിവയുടെ സംയോജനമായ f ഫംഗ്ഷൻ കാണാം നിങ്ങൾ ഇവിടെ ലീനിയറിറ്റി പ്രോപ്പർട്ടി ഉപയോഗിക്കുകയും f ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ മൂല്യം കണ്ടെത്തുകയും ചെയ്യും അതിനാൽ നമുക്ക് ലീനിയറിറ്റി പ്രോപ്പർട്ടി പ്രയോഗിക്കാം ലീനിയറിറ്റി പ്രോപ്പർട്ടി പ്രകാരം F δ 2 u − 3e−2t നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം f t2sin 2t u എന്ന ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനാൽ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ടി സ്ക്വയർ പദം ഉള്ളതിനാൽ ഫ്രീക്വൻസി ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കണം ഈ പ്രത്യേക പദം രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേഷറ്റ്ചെയ്യേണ്ടതുണ്ട് അതായത് അടുത്തത് ഗേറ്റ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ ആവശ്യപ്പെട്ടാൽ നമുക്ക് ഇവിടെ എന്താണ് കാണാൻ കഴിയുക രണ്ടിൽ നിന്ന് ആരംഭിച്ച് മൂന്നിൽ പൂർത്തിയാകുന്ന ഒരു ഗേറ്റ് ഫംഗ്ഷനാണിത് ഈ പ്രത്യേക ഫംഗ്ഷൻ രണ്ട് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ സംയോജനമാണെന്ന് പറയാൻ കഴിയും എങ്ങനെ നിങ്ങൾക്ക് ഫംഗ്ഷൻ g 10ut − 2 − ut − 3 എന്ന് പറയാൻ കഴിയും അതത് സമയപരിധി വൈകിയ രണ്ട് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം ഇപ്പോൾ ഇതോടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു ഈ സെഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ സവിശേഷതകളെക്കുറിച്ച് ചർച്ച ചെയ്തു അടുത്ത ക്ലാസ് വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ കണക്കുകൂട്ടലിനെക്കുറിച്ച് ചർച്ച ചെയ്യും